മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ ഷെഡ്യൂളറുടെ ടാസ്ക് ഷെഡ്യൂളർമാരെ നമ്മൾ നോക്കിയിരുന്നു ടാസ്ക് ഷെഡ്യൂളിംഗ് ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്നായതിനാൽ ക്ലോക്ക് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകൾ എന്നറിയപ്പെടുന്ന ചില ലളിതമായ റിയൽ ടൈം ടാസ്ക് ഷെഡ്യൂളറുകളെക്കുറിച്ചും നമ്മൾ ചർച്ചചെയ്തിട്ടുണ്ട് അവ പ്രോസസ്സിംഗ് പവർ മെമ്മറി തുടങ്ങിയ വളരെ ലളിതമായ ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നു അതു മാത്രമല്ല അവ വളരെ ചെറുതും ആണ് വളരെ കുറച്ച് മെമ്മറിയും കമ്പ്യൂട്ടിംഗ് പവറും എടുക്കുന്ന ഒരു ചെറിയ പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിപുലമായി ഉപയോഗിക്കുന്ന ഷെഡ്യൂളറുകളുടെ ഒരു പ്രധാന വിഭാഗമാണ് സൈക്ലിക് ഷെഡ്യൂളറുകൾ എന്നതിനാൽ നമ്മൾ ടേബിൾ ഡ്രൈവ്എൻ ഷെഡ്യൂളറുകളെയും സൈക്ലിക് ഷെഡ്യൂളറുകളെയും നോക്കി ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകൾ വലിയ ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്ന ഷെഡ്യൂളറുകളുടെ ഒരു പ്രധാന വിഭാഗമാണ് അവിടെ ടാസ്ക്കുകളുടെ എണ്ണം കൂടുതലുള്ളതും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളതും പ്രധാനപ്പെട്ട പ്രോസസ്സിംഗ് ഓവർഹെഡും മെമ്മറി കാൽ രേഖകളും ഉണ്ട് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഇവന്റ് ഡ്രൈവ്എൻ ഷെഡ്യൂളറുകളിൽ വലിയ വൈവിധ്യമുണ്ടെന്ന് നമ്മൾ കണ്ടു പക്ഷേ അവയെല്ലാം 2 അടിസ്ഥാന വിഭാഗ ഷെഡ്യൂളറുകളുടെ വകഭേദങ്ങളാണ് ഒന്ന് EDF ഏർലിസ്റ് ഡെഡ്ലൈൻ ഫസ്റ്റ് ഒന്നാമത്തേതും രണ്ടാമത്തേത് RMA റേറ്റ് മോണോടോണിക് അൽഗോരിതം ഒപ്റ്റിമൽ ഷെഡ്യൂളറാണ് EDF ഇത് ഒരു ഡൈനാമിക് പ്രിയോറിറ്റി ഷെഡ്യൂളറാണ് EDF വളരെ മികച്ച റിയൽ ടൈം ടാസ്ക് ഷെഡ്യൂളറാണെങ്കിലും അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടെത്തും EDF ന് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയും മാത്രമല്ല മറ്റ് ഷെഡ്യൂളർമാർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയാത്ത ടാസ്ക്കുകൾക്ക് വിജയകരമായ പ്രായോഗിക ഷെഡ്യൂൾ നേടാനും കഴിയും അതിന്റെ ഓവർഹെഡ് ചെറുതാണ് പക്ഷേ സാധാരണ അപ്ലിക്കേഷനുകളിൽ ഇത് ഉപയോഗിക്കില്ല മൂന്ന് പ്രധാന പോരായ്മകൾ ഒന്ന് ക്ഷണികമായ ഓവർലോഡ് ഉണ്ടെങ്കിൽ ചില ജോലികൾ വൈകും ഒരുപക്ഷേ അത് ചില സിഗ്നലിനായി കാത്തിരിക്കുകയോ അല്ലെങ്കിൽ അത് ഒരു വലിയ പാതയിലേക്ക് കോഡ് പോയിരിക്കുകയോ അല്ലെങ്കിൽ അവസാനിപ്പിക്കാത്ത ലൂപ്പിലേക്ക് പോയതാകാം അത് സംഭവിക്കുകയാണെങ്കിൽ വളരെ വിമർശനാത്മകമല്ലാത്ത ഒരു ജോലിയോ അല്ലെങ്കിൽ വളരെ പതിവായ ഒരു ജോലിയോ പോലും ഏറ്റവും നിർണായകമായ ചുമതലയ്ക്ക് അതിന്റെ ഡെഡ്ലൈൻ നഷ്ടപ്പെടാം അത് ഒരു പ്രധാന പ്രശ്നമാണ് രണ്ടാമത്തേത് റൺടൈം കഴിവില്ലായ്മയാണ് മറ്റ് ഷെഡ്യൂളറുകൾ കൂടുതൽ കാര്യക്ഷമമാണ് ഉദാഹരണത്തിന് RMA അടിസ്ഥാനമാക്കിയുള്ള ഷെഡ്യൂളറുകൾ EDF ഷെഡ്യൂളറിന്റെ കഴിവുകേടിന്റെ ഉറവിടം ഇനിപ്പറയുന്നതാണ് ഓരോ ഷെഡ്യൂളിംഗ് പോയിന്റിലും ഷെഡ്യൂളർ സജീവമാവുകയും തുടർന്ന് EDF അൽഗോരിതം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അടുത്ത ചുമതല തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ഇത് തയ്യാറായ എല്ലാ ടാസ്കുകളും പരിശോധിക്കുന്നു ഏതാണ് ഏർലിസ്റ് ഡെഡ്ലൈൻ ഉള്ളതെന്ന് കണ്ടെത്തുന്നു ഇത് ചെയ്യുന്നതിന് ചില ഡാറ്റ ഘടനയിൽ ടാസ്ക്കുകൾ ഉണ്ടായിരിക്കണം ആദ്യം ഒരു ക്യൂവിൽ കാത്തിരിക്കുന്ന എല്ലാ ടാസ്കുകളും തയാറായ ടാസ്ക്കുകളാണോയെന്ന് പരിശോധിക്കുക ക്യൂ മുഴുവൻ നോക്കിയ ശേഷം ഏറ്റവും ഏർലിസ്റ് ഡെഡ്ലൈൻ ഉള്ള ടാസ്ക് കണ്ടെത്തുന്നു N ടാസ്ക്കുകൾ ഉണ്ടെങ്കിൽ ഒരു ക്യൂ ട്രവേഴ്സ് ചെയാൻ എടുക്കുന്ന സമയം O ആണ് അപ്പോൾ O എന്നത് ടാസ്ക് കണ്ടെത്തുന്നതിന്റെ സങ്കീർണ്ണതയാണ് ഒരു ടാസ്ക് ക്യൂവിൽ ഉൾപ്പെടുത്തുമ്പോൾ ജനറേറ്റ് ചെയാൻ എടുക്കുന്ന സങ്കീർണ്ണത O ആണ് അത് ക്യൂവിന്റെ അവസാനം ചേർക്കുമ്പോൾ ഓരോ ഷെഡ്യൂളിംഗ് പോയിന്റിലും O യഥാർത്ഥത്തിൽ കാര്യക്ഷമമല്ല നമുക്ക് O എന്നത് നമ്മുടെ ഐഡിയൽ ആയ കോംപ്ലക്സിറ്റി ആണ് കാരണം ടാസ്ക്കുകൾ കൂടുതലാണെങ്കിൽ ഓരോ കുറച്ച് മൈക്രോസെക്കൻഡിലും അല്ലെങ്കിൽ ഷെഡ്യൂളിംഗ് പോയിൻറുകൾ പതിവായി സംഭവിക്കുന്നുണ്ടെങ്കിൽ റൺടൈം ഓവർഹെഡ് പ്രാധാന്യമർഹിക്കുന്നു EDF ഷെഡ്യൂളർ നടപ്പിലാക്കുന്നതിനുള്ള മറ്റ് ഓപ്ഷനുകൾ ഇനിപ്പറയുന്നവയാണ് ഒന്ന് പ്രിയോറിറ്റി ക്യൂ ആണ് അത് ക്യൂവിന്റെ മുകളിൽ ഏറ്റവും ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്ക് ലഭ്യമാകുന്ന ഒരു തരം ക്യൂ ആണ് ഏറ്റവും കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് കണ്ടെത്തുന്നത് O ആണ് പക്ഷേ ഒരു പ്രിയോറിറ്റി ക്യൂവിൽ ഉൾപ്പെടുത്തുന്നതിന്റെ സങ്കീർണ്ണത O ആണ് സിംഗിൾ ലിങ്കഡ് ലിസ്റ്റിനേക്കാൾ മികച്ച ഘടനയാണെങ്കിലും ഒരു ലീനിയർ ക്യൂ എന്നാൽ ഇപ്പോഴും logn എന്നത് ഒരു ടാസ്ക്കിനോ ഷെഡ്യൂളറിനോ അഭികാമ്യമായ സമയ സങ്കീർണ്ണതയല്ല അതിനാൽ EDF ശരിക്കും റൺടൈം കാര്യക്ഷമമല്ല ഒരു റിയൽ ടൈം ആപ്ലിക്കേഷൻ വികസനത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ EDF അടിസ്ഥാനമാക്കിയുള്ള ഷെഡ്യൂളറിലെ മോശം റിസോഴ്സ് ഷെറിങ് പിന്തുണയാണ് ഒരു പ്രായോഗിക അപ്ലിക്കേഷനിൽ റിയൽ ടൈം ടാസ്ക്കുകൾക്ക് റിസോഴ്സ്സ് പങ്കിടേണ്ടതുണ്ട് റിസോഴ്സ്സ് മെമ്മറി അല്ലെങ്കിൽ ഓപ്പൺ ഫയലുകൾ മുതലായവയെ അടിസ്ഥാനമാക്കിയുള്ള ചില ഡാറ്റ ഇനങ്ങളാകാം അവയെ ക്രിട്ടിക്കൽ സെക്ഷൻസ് എന്ന് വിളിക്കുന്നു EDF ക്രിട്ടിക്കൽ റിസോഴ്സ്സ് ടാസ്ക്കുകൾക്കിടയിലുള്ള റിസോഴ്സിനായി നിലവിലുള്ള പരിഹാരങ്ങൾ വളരെ കാര്യക്ഷമമല്ല മാത്രമല്ല ഇത് ടാസ്ക്കുകൾ അവരുടെ ഡെഡ്ലൈൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു റിസോഴ്സ്സ് ഷെറിങ് തൃപ്തികരമായ പരിഹാരമൊന്നും ലഭ്യമല്ലാത്തതിനാൽ പ്രായോഗിക യഥാർത്ഥ ആപ്ലിക്കേഷനുകളിൽ EDF ഉപയോഗിക്കാത്തതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഇത് റേറ്റ് മോണോടോണിക് അധിഷ്ഠിത ഷെഡ്യൂളർമാർക്ക് റിസോഴ്സ് ഷെറിങ്നായി വളരെ നല്ല അൽഗോരിതങ്ങൾ ലഭ്യമാണ് ഓരോ ടാസ്കിനും പീരിയഡ് ഡെഡ്ലൈനും ഒത്തുപോകുന്നു പീരിയഡ്ഉം ഡെഡ്ലൈനും തുല്യമാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഡെഡ്ലൈനും പീരിയഡ്ഉം വ്യത്യസ്തമായിരിക്കും ഉദാഹരണത്തിന് ഡെഡ്ലൈൻ പീരിയഡ്നേക്കാൾ കുറവായിരിക്കാം അല്ലെങ്കിൽ അപൂർവ കേസുകളുടെ ഡെഡ്ലൈൻ പീരിയഡ്നേക്കാൾ കൂടുതലാകാം ഈ കേസുകളിൽ എങ്ങനെയാണ് EDF ഷേഡ്യൂളബിലിറ്റി പരിശോദിക്കുന്നത് ഒരു പ്രധിവിധി pidi എടുക്കുന്നതാണ് eiminpidi നമുക്ക് യൂട്ടിലൈസഷൻ തരുന്നു അതോടൊപ്പം ഇത് 1 ആണ് അപ്പോൾ ടാസ്ക് സെറ്റ് EDFഇൽ ഷ്ഡ്യൂളബിൽ ആണ് പക്ഷെ ഇത് ഒരു അത്യാവശ്യ നിബന്ധന അല്ല കാരണം ചില ടാസ്ക് സെറ്റുകൾ ഈ ക്രൈറ്റീരിയ പാലിക്കുനില്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതും നിർബന്ധമായ ക്രൈറ്റീരിയൻ ആണ് ഇത് ക്രൈറ്റീരിയൻ പാലിക്കുനില്ല എന്നാലും ഇത് ഫീസിബിൽ ആയി ഷ്ഡ്യൂൽ ചെയ്യാവുന്ന ഒന്നാണ് pi ≠ di എന്നാണെകിൽ നമ്മൾ eiminpidi എന്നത് ഉപയോഗിക്കണം ഇതു ഷേഡ്യൂളബിലിറ്റിയുടെ തികഞ്ഞ നിബന്ധന ആണ് പക്ഷെ ഈ ക്രൈറ്റീരിയ ആവശ്യമില്ലാത്ത കേസുകൾ ഉണ്ട് എനാലും അതു ഷേഡ്യൂളബിൽ ആകും യഥാർത്ഥത്തിൽ നിരവധി വ്യത്യസ്താ EDF ഉണ്ട് ഒരു പ്രധാന വ്യതിയാനത്തെ മിനിമം ലാക്സിറ്റി ഫസ്റ്റ് എന്ന് വിളിക്കുന്നു EDFൽ നമ്മൾ ഡെഡ്ലൈൻ മാത്രമാണ് നോക്കുന്നത് അതായത് എത്ര ഡെഡ്ലൈൻ ശേഷിക്കുന്നു എന്നാൽ നമ്മൾ എക്സിക്യൂഷൻ ടൈം കണക്കാക്കുന്നില്ല അതായത് ഡെഡ്ലൈൻ ആവശ്യമാണ് ഡെഡ്ലൈൻ 100 മൈക്രോസെക്കൻഡും മറ്റൊരു ടാസ്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 5 മൈക്രോസെക്കൻഡും കംപ്യൂടടെഷൻ ടൈം 100 മൈക്രോസെക്കൻഡാണ് എന്നാൽ ആവശ്യമായ കംപ്യൂടടെഷൻ ടൈം 50 മൈക്രോസെക്കൻഡാണ് അതേ ഡെഡ്ലൈനിനുള്ളിൽ കൂടുതൽ കംപ്യൂടടെഷൻ ശേഷിക്കുന്ന ടാസ്കുകൾക്കു ഉയർന്ന പ്രിയോറിറ്റി നൽകുന്നതാണ് നല്ലത് MLFലെ പ്രധാന ആശയം അതാണ് ഇവിടെ ലാക്സിടിയുടെ നിർവചനം ഡെഡ്ലൈൻ മൈനസ് ടാസ്ക് എക്സിക്യൂട്ട് ചെയാൻ ആവശ്യമായ കമ്പ്യൂട്ടിങ് ആണ് ഇത് ഒരു നല്ല അൽഗോരിതം ആയി മാറുന്നു കാരണം ആദ്യം പരാജയപ്പെടാൻ സാധ്യതയുള്ള ടാസ്ക്കാണ് ഏറ്റവും ഉയർന്ന പ്രിയോറിറ്റി നൽകുന്നത് ഇത് കുറഞ്ഞത് EDF പോലെ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നു പക്ഷേ ചില സന്ദർഭങ്ങളിൽ EDF നേക്കാൾ മികച്ച പ്രകടനം നടത്താൻ ഇതിന് കഴിയും ഒപ്റ്റിമൽ ഷെഡ്യൂളിംഗ് അൽഗോരിതം ആയ ഏർലിസ്റ് ഡെഡ്ലൈൻ ഫസ്റ്റ് അൽഗോരിതം EDFനെക്കുറിച്ചുള്ള നമ്മൾ നമ്മുടെ ചർച്ച അവസാനിപ്പിച്ചു റേറ്റ് മോണോടോണിക് ഷെഡ്യൂളറുകൾ റിയൽ ടൈം ഷെഡ്യൂളറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസാണ് ഇവ EDFനെപ്പോലെ പ്രൊഫിഷ്യന്റ അല്ലെങ്കിലും ഇവയുടെ പ്രായോഗിക നടപ്പാക്കൽ വളരെ ലളിതവും കാര്യക്ഷമവുമാണ് കൂടാതെ റിസോഴ്സ് ഷെറിങ് പോലുള്ള EDFന്റെ മറ്റ് പോരായ്മകളും ഇവിടെ എളുപ്പമാകും റേറ്റ് മോണോടോണിക് ഷെഡ്യൂളറിൽ അതിനാൽ ഈ ഷെഡ്യൂളറുകൾ പല റിയൽ ടൈം അപ്ലിക്കേഷനുകളിലും വ്യാപകമായി ഉപയോഗിക്കുന്നു റേറ്റ് മോണോടോണിക് ഷെഡ്യൂളറിലെ പ്രധാന ആശയം ഒരു ടാസ്ക്കിന്റെ പ്രിയോറിറ്റി അതിന്ടെ റേറ്റ് ഓഫ് ആരൈവൾ ആയിട്ടു പ്രൊപ്പോഷണൽ ആണ് എന്നതാണ് ഇവിടെ പ്രിയോറിറ്റി പ്രോഗ്രാമർ അല്ലെങ്കിൽ ഡിസൈനർ സ്റ്റാറ്റിക്കലി അലോട്ട് ചെയുന്ന ഒന്നാണ് കൂടാതെ ഒരു ടാസ്ക്കിന് അസൈൻ ചെയ്തിരിക്കുന്ന പ്രിയോറിറ്റി ടാസ്ക് ആരൈവൾ റേറ്റ്നു പ്രൊപ്പോഷണൽ ആയിരിക്കണം അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്യുൻസിക് പ്രൊപ്പോഷണൽ ആയിരിക്കണം കൂടാതെ ഒരു ടാസ്ക്കിന്റെ പീരിയഡ് 2 മില്ലിസെക്കൻഡാണെങ്കിൽ അത് 10 മില്ലിസെക്കൻഡുള്ള ഒരു ടാസ്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായും അതിനു ഉയർന്ന പ്രിയോറിറ്റി ഉണ്ടായിരിക്കണം ഒരു ടാസ്കിന്ടെ ഉയർന്ന ഫ്രീക്യുൻസിക് അല്ലെങ്കിൽ കുറഞ്ഞ പീരിയഡ്നു അതിന്ടെ പ്രിയോറിറ്റി കൂടുതൽ ആയിരിക്കണം അതാണ് ഈ ഷെഡ്യൂളറിനായുള്ള അടിസ്ഥാന പ്രമേയം അല്ലെങ്കിൽ അടിസ്ഥാന അൽഗോരിതം നമ്മൾ ടാസ്ക്കുകൾ ഫ്രീക്യുൻസി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഓർഡർ ഓഫ് റേറ്റ് ഓഫ് ആരൈവൾ ക്രമത്തിലോ ക്രമീകരിക്കുകയാണെങ്കിൽ പ്രിയോറിറ്റി അവരുടെ ഫ്രീക്യുൻസിയുടെ ക്രമത്തിൽ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പീരിയഡ് അനുസരിച്ച് കുറയുകയോ വേണം ടാസ്ക് ആരൈവൾ റേറ്റ്ന്റെ വർദ്ധിച്ചുവരുന്ന ഫങ്ക്ഷന് ആണ് പ്രിയോറിറ്റി ഉദാഹരണത്തിന് ടാസ്ക് 1 ൽ ഇത് പതിവായി ആവർത്തിക്കുന്നത് റേറ്റ് ഓഫ് ആരൈവൾ ടാസ്ക് 2 നെ അപേക്ഷിച്ച് വളരെ ഉയർന്നതാണ് ആരുടെ റേറ്റ് ഓഫ് ആരൈവൾ കുറവാണ് അതിനാൽ ടാസ്ക്1ന് ഉയർന്ന പ്രിയോറിറ്റി ഉണ്ട് ടാസ്ക് 2 ന് കുറഞ്ഞ പ്രിയോറിറ്റിയും ഉയർന്ന പ്രിയോറിറ്റിയുള്ള ടാസ്ക് ഏതെങ്കിലും കുറഞ്ഞ പ്രിയോറിറ്റിയുള്ള ടാസ്ക്നേ പ്രിയമ്ട് ചെയുകയും അതിന്റെ ആരൈവൾ സമയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും എന്നതാണ് ഈ ഷെഡ്യൂളറിന്റെ സാരം ഈ ആക്ച്വല് എക്സിക്യൂഷൻ 0 സമയമാണോ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ടാസ്ക് 1 ടാസ്ക് 2 ഇൻസ്റ്റൻസ് എന്നിവ രണ്ടും തയ്യാറാണ് പക്ഷേ ടാസ്ക് 1 ന് ഉയർന്ന പ്രിയോറിറ്റി ഉണ്ട് അതിനാൽ ഈ ഇൻസ്റ്റൻസ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ആദ്യ 2 ഇൻസ്റ്റൻസിനായി കാത്തിരിക്കണം ടാസ്ക് 1 ഇൻസ്റ്റൻസ്സ് പൂർത്തിയാക്കിയ ഉടൻ ടാസ്ക് 2 ഇൻസ്റ്റൻസ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു തുടർന്ന് ടാസ്ക് 1 ന്റെ അടുത്ത ഇൻസ്റ്റൻസ്സ് എത്തിച്ചേരുന്നു അത് ടാസ്ക് 2 മുൻകൂട്ടി തയ്യാറാക്കുന്നു അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു തുടർന്ന് അത് ടാസ്ക് പൂർത്തിയാക്കുമ്പോൾ ടാസ്ക് 2 വീണ്ടും സജീവമാകും റേറ്റ് മോണോടോണിക് ഷെഡ്യൂളിംഗിലെ പ്രധാന ആശയം ഉയർന്ന പ്രിയോറിറ്റി ടാസ്ക് പ്രവർത്തിക്കുന്നുവെന്നും ഉയർന്ന പ്രിയോറിറ്റിയുള്ള ടാസ്ക് ഉള്ളിടത്തോളം കുറഞ്ഞ പ്രിയോറിറ്റിയുള്ള ടാസ്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് ഒരു പ്രധാന റിസൾട്ട് എല്ലാ സ്റ്റാറ്റിക് പ്രിയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതംസിനും ഇടയിൽ RMA ദി റേറ്റ് മോണോടോണിക് അൽഗോരിതം ഒപ്റ്റിമൽ അൽഗോരിതം ആണ് RMAക്ക് ഒരു കൂട്ടം പീരിയോഡിക് ടാസ്ക്കുകൾ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റ് സ്റ്റാറ്റിക് പ്രിയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതംസിന് കഴിയില്ല മറുവശത്ത് ഏതെങ്കിലും സ്റ്റാറ്റിക് പ്രിയോറിറ്റി ടാസ്ക് ഷെഡ്യൂളർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഏത് ടാസ്ക് സെറ്റും RMAയ്ക്ക് കീഴിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും RMA വളരെ നല്ല സ്റ്റാറ്റിക് പ്രിയോറിറ്റി അൽഗോരിതം ആണ് ഒരു ടാസ്ക് സെറ്റ് തന്നാൽ ഷെഡ്യൂളബിലിറ്റി വിശകലനത്തിൽ ലഭ്യമായ റിസൾട്ട് ഒരു റേറ്റ് മോണോടോണിക് ഷെഡ്യൂളറിൽ ഇത് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയും എന്നതാണ് ആ ഫലങ്ങൾ സാധാരണയായി യൂട്ടിലൈസഷൻ ബൌണ്ട്കളായി നൽകുന്നു ടാസ്ക് സെറ്റ് അല്ലെങ്കിൽ പ്രോസസറിന്റെ ഉപയോഗത്തെ അടിസ്ഥാനമാക്കി RMA ഷെഡ്യൂളറിന് കീഴിലുള്ള ഒരു പ്രോസസ്സറിൽ ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് നിഗമനം ചെയ്യാം 1971 ന് ശേഷം ലഭ്യമായ ആദ്യ ഫലത്തെ യൂട്ടിലൈസേഷൻ ബൌണ്ട് 1 എന്ന് വിളിക്കുന്നു ഇതാണ് അടിസ്ഥാന ഫലം ഇതു ഒരുപാട് നാളുകൾ ആയി ലഭ്യമായ വിവരം ആണ് അതായത് യൂട്ടിലൈസഷൻ ∑ eipi1 കാരണം പ്രൊസസ്സറുടെ യൂട്ടിലൈസഷൻ 1 ആകാൻ പാടില്ല അതുപോലെ ∑eipi1 അതോപോടം ഇത് ഒരു അടിസ്ഥാനപരമായ നിബന്ധന ആണ് ഇതിനെ യൂട്ടിലൈസഷൻ ബൌണ്ട് 1 എന്നു വിളിക്കുന്നു ഇതെലാം അത്യാവശ്യമായ നിബന്ധ ആണ് പക്ഷെ ഒരു ടാസ്ക് സെറ്റ് ഇത് മീറ്റ് ചെയുന്നു അതായത് ∑eipi1 ഇവിടെ എക്സിക്യൂഷൻ ടൈം eയും പീരിയഡ് pയും ആണ് നമ്മൾ കൂടുതൽ നിബന്ധനകൾ നോക്കേണ്ടതുണ്ട് കാരണം ഈ നിബന്ധന പാലിക്കുന്ന ടാസ്കുകൾ മീൻ മീറ്റ് ചെയുനില്ല അതായത് ടാസ്ക് സെറ്റ് ഷ്ഡ്യൂലബിൽ ആണ് പക്ഷെ EDF ഷ്ഡ്യൂളർ നമ്മൾ ഓർകുന്നുണ്ടെകിൽ അതിൽ ഈ രണ്ടും നിബന്ധനകൾ അത്യാവശ്യവും ധാരാളവും ആണ് ഇതേ എക്സ്പ്രഷ്ൻ ∑eipi1 ഇതു EDF ഷ്ഡ്യൂളർനു അത്യാവശ്യവും ധാരാളവും ആണ് പക്ഷെ ഇവിടെ ചെക്ക് ചെയേണ്ടതായ അത്യാവശ്യ നിബന്ധന ആണ് ∑eipi1 അങ്ങനെയെങ്കിലും നമുക്ക് മറ്റു യൂട്ടിലൈസഷൻ കണ്ടിഷൻസ് നോക്കാം അല്ലെകിൽ ഈ നിബന്ധന മീറ്റ് ആയില്ലെകിൽ ഇത് റേറ്റ് മോനോടോണിക് അൽഗോരിതത്തിൽ ഷ്ഡ്യൂളബിൾ ആകില്ല ഇതാണ് ബിഹേവിയർ ഇപ്പോൾ നമ്മൾ ടാസ്കുകളുടെ എണം എടുക്കുക ആണെകിൽ 1 2 3 4 5 എന്നിങ്ങനെ ഈ സമയം 10 ടാസ്ക്സ് ഉണ്ടെങ്കിൽ ഇത് എലാം 0 7ഇൽ സെറ്റിൽ അപ്പ് ആകും ഒരു ടാസ്ക്സ് സെറ്റ്നു 0 7ഓ അല്ലെകിൽ 70 യൂട്ടിലൈസഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സേഫ് ആയി ഇത് ഷ്ഡ്യൂളബിൽ ആകുമെന്ന് കരുതാം യൂട്ടിലൈസഷൻ 70 താഴെയോ ഇതിനു അടുത്തോ ആണെകിൽ എലാ ടാസ്കുകളുടെയും യൂട്ടിലൈസഷൻ ഇതിനു അടുത്തോ അതായതു 70 താഴെ ആകും ഇത് യൂട്ടിലൈസഷൻന്ടെ അപ്പർ ബൌണ്ട് ആണ് ഒരു ടാസ്ക് സെറ്റ്ന്ടെ യൂട്ടിലൈസഷൻ 70ത്തിനു താഴെ ആണെന് കണ്ടെത്തും വരെ ഇത് റേറ്റ് മോനോടോണിക് ഷ്ഡ്യൂള്ർ കൊണ്ട് ഷ്ഡ്യൂള് ചെയാവുന്ന ഒന്നാണെന്നു നമുക്ക് അനുമാനികാം ലിയു ആൻഡ് ലെയ്ലാൻഡ് ബൌണ്ട് തന്നരിക്കുന്നു പോലെ ടാസ്കുകളുടെ എണം കൂടുന്നതിനു അനുസരിച്ചും അതുപോലെ വളരെ വലിയ ടാസ്കുകൾക്കും അതിന്ടെ ടാസ്ക് ഷ്ഡ്യൂളബിൽ ആകുന്ന മാക്സിമം യൂട്ടിലൈസഷൻ കുറയുന്നു അതു 0 7 അടുത്ത് സെറ്റിൽ ആകുന്നു കൃത്യമായി പറഞാൽ 0 692 അതോടൊപ്പം 0 692 കിട്ടാൻ ആയി ഇന്ഡെടെര്മിനേറ്റ ഫോം ∞ 0 അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു ഈ ഇന്ഡെടെര്മിനേറ്റ എക്സ്പ്രഷനിൽ Lhospitals റൂൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് log2 അതായത് 69 2 കിട്ടുന്നു ടാസ്ക് സെറ്റിന്റെ യൂട്ടിലൈസഷൻ 69 2 ആയിരിക്കുന്നിടത്തോളം ടാസ്ക് സെറ്റ് വളരെ സുരക്ഷിതമായി ലിയു ആൻഡ് ലെയ്ലാൻഡ് ബൌണ്ട് കീഴിൽ ഷ്ഡ്യൂളബിൽ ആകാം പക്ഷെ ഇത് ഷ്ഡ്യൂളബിൽ അല്ലെകിൽ അതിന്ടെ യൂട്ടിലൈസഷൻ 69 2ഇലും കൂടുതൽ ആണ് അതായത് ടാസ്ക് 2 3 4 എന്നിങ്ങനെ എത്ര എണം ടാസ്കുകൾ ഈ എക്സ്പ്രഷൻ 21∞ 1ഉപയോഗിച്ച് കമ്പ്യൂട് ചെയാൻ ആകുമെന്ന് നമ്മൾ പരിശോധിക്കണം അതോടൊപ്പം യൂട്ടിലൈസഷൻ 82 ഉള്ള 2 ടാസ്കുകൾക്കു ടാസ്ക് സെറ്റ് റേറ്റ് മോനോടോണിക് ഷഡ്യൂളർ ഉപയോഗിച്ച് ഫീസിബിൽ ആയി നമുക്ക് ഷഡ്യൂൽ ചെയാം റേറ്റ് മോനോടോണിക് ഷഡ്യൂളർ വ്യാപകമായി പല റിയൽ ടൈം അപ്പ്ലിക്കേഷനിലും ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഷഡ്യൂളർ ക്ലാസ്സ് ആണ് ഇതു ഒരുവിധം എല്ലാ കൊമേർഷ്യൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംത്തിലും സപ്പോർട്ട് ചെയുന്നു ഈ ഷഡ്യൂളിങ് അൽഗോരിതം അടുത്ത ലെക്ചർഇൽ നമുക്ക് ചർച്ച ചെയാം ഒരുപാട് നന്ദി